ഇപ്പോൾ ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് നമ്മൾ പരീക്ഷിച്ചുനോക്കും ഇപ്പോൾ ഇത് അൽപ്പം ആശയക്കുഴപ്പമുണ്ടാക്കാം കാരണം MOS ട്രാൻസിസ്റ്റർ സ്വയം ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് ഇപ്പോൾ ഒരു MOS ട്രാൻസിസ്റ്ററിന് ഈ സ്മാൾ സിഗ്നൽ ഇൻക്രിമെൻറൽ ഇക്വലന്റുണ്ട് vgs gmvgss ഇത് ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു അർദ്ധചാലക ഉപകരണത്തിന്റെ പല പാരാമീറ്ററുകളും താപനിലയെ ശക്തമായി ആശ്രയിച്ചിരിക്കുന്നു മാത്രമല്ല ഈ gm താപനിലയോടൊപ്പം മാറുന്നു ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അല്ലാത്ത ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് അത് അത്രമേൽ താപനിലയെയും മറ്റും ആശ്രയിക്കുന്നില്ല വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് പോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നമുക്ക് അത് റിയലൈസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതുവഴി അത് MOS ട്രാൻസിസ്റ്റർ പാരാമീറ്ററുകളെ വളരെയധികം ആശ്രയിക്കില്ല ഇത് കൂടുതൽ സ്ഥിരമായി റിയലൈസ് ചെയ്യാൻ കഴിയുന്ന മറ്റ് ചില ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് io vinG1 എന്ന ബന്ധം പിന്തുടരുന്നു ഇത് സാധാരണയായി Gm സൂചിപ്പിക്കുന്നു പക്ഷേ എംഒഎസ് ട്രാൻസിസ്റ്ററിന്റെ gm ഉം ഈ Gm ഉം തമ്മിൽ ആശയക്കുഴപ്പത്തിലാക്കരുത് ഈ ട്രാൻസ് കണ്ടക്ടൻസിനായി ഞാൻ മറ്റൊരു പദം ഉപയോഗിക്കും ഇതാണ് G1 അല്ലെങ്കിൽ എനിക്ക് ഇത് vinR1 എന്ന് എഴുതാം R1 എന്നത് G1 ന്റെ പരസ്പരവിരുദ്ധമാണ് ഇപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചും ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചും നമ്മൾ ഇത് മനസ്സിലാക്കണം ഒരു MOS ട്രാൻസിസ്റ്ററിൽ നമുക്ക് നിയന്ത്രണ അളവ് vgs ഉം നിയന്ത്രിത അളവും ഉണ്ട് അത് ഡ്രെയിൻ കറന്റും g gmvgs ന് തുല്യവുമാണ് കൂടാതെ id ഡ്രെയിനിൽ നിന്ന് സോഴ്സ് ടെർമിനലിലേക്ക് ഒഴുകുന്നു അതിനാൽ ഔട്ട്പുട്ട് കറന്റ് ഡ്രെയിനിൽ നിന്നോ സോഴ്സ് ടെർമിനലിൽ നിന്നോ സൌകര്യപ്രദമായതിൽ നിന്ന് പുറത്തുവരണം യഥാർത്ഥവും ആവശ്യമുള്ളതുമായ മൂല്യങ്ങൾ തമ്മിലുള്ള എറർ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിൽ പ്രയോഗിക്കേണ്ടതുണ്ട് കാരണം അതാണ് ഒടുവിൽ MOS ട്രാൻസിസ്റ്ററിലെ വൈദ്യുതധാരയെ നിയന്ത്രിക്കുന്നത് അതിനാൽ നമുക്ക് iovinR1 വേണം ഇത് എഴുതാനുള്ള മറ്റൊരു മാർഗ്ഗം നമുക്ക് vin ioR10 വേണം എന്നതാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എറർ ആയി കണക്കാക്കാം vin ioR1 എറർ ആയി കണക്കാക്കാം ആവശ്യമുള്ളതും യഥാർത്ഥവുമായ മൂല്യങ്ങൾക്കിടയിൽ ഒരുതരം എറർ അത് ഒടുവിൽ പൂജ്യമായിരിക്കണം അതിനാൽ എറർ വോൾട്ടേജ് vin ioR1 അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് vgs ആയിരിക്കണം അതിനാൽ vgs vin ioR1 അല്ലെങ്കിൽ ioR1 vinആയിരിക്കണം തീർച്ചയായും ഇത് മറ്റേതെങ്കിലും അളവാകാം ഇത് ഇപ്പോഴും ഇതിന് ആനുപാതികമാണ് നമുക്ക് ആവശ്യമുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് നടപടി എന്താണ് io വലുതാണെങ്കിൽ അത് വർദ്ധിക്കുന്ന പ്രവണതയുണ്ട് തുടർന്ന് vgs കുറയുന്നു io വളരെ വലുതാണെങ്കിൽ ആവശ്യമുള്ളതിനേക്കാൾ വലുതാണെങ്കിൽ vgs കുറയുന്നു അങ്ങനെ കറന്റ് കുറയുന്നു അതുപോലെ io വളരെ ചെറുതാണെങ്കിൽ vgs വർദ്ധിക്കണം അങ്ങനെ കറന്റ് വർദ്ധിക്കുന്നു ക്രമേണ MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ കറന്റ് ഔട്ട്പുട്ട് കറന്റ് io ആയിരിക്കും അതിനാൽ ആദ്യ ഫോം ഇതുമായി പൊരുത്തപ്പെടുന്നതായി നിങ്ങൾ വ്യക്തമായി കാണുന്നു io ഇവിടെ നെഗറ്റീവ് ചിഹ്നത്തോടെ ദൃശ്യമാകുന്നു അതിനാൽ io വളരെ ചെറുതാണെങ്കിൽ vgs ഒരു വലിയ പോസിറ്റീവ് അളവായിരിക്കും ഇത് ഡ്രെയിൻ കറന്റ് വർദ്ധിപ്പിക്കും അതിനാൽ vgs vin ioR1 ന് തുല്യമായിരിക്കണം നമുക്കുള്ള മറ്റൊരു വഴി പ്രവർത്തിക്കുന്നില്ല കാരണം io വളരെ വലുതാണെങ്കിൽ vgs യഥാർത്ഥത്തിൽ വലുതായിത്തീരും അതിനാൽ vin ioR1 ന് തുല്യമായി vgs ഉള്ളതിനാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രവർത്തനം ലഭിക്കും അതിനാൽ vgs vin ioR1 ആണെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് ഈ പ്രവർത്തനം ഉണ്ട് ഇപ്പോൾ ഇത് നിറവേറ്റുന്ന ഒരു സർക്യൂട്ട് നിർമ്മിക്കാൻ ശ്രമിക്കാം ഇത് vgs ആണ് ഇത് gmvgs അല്ലെങ്കിൽ അടിസ്ഥാനപരമായി വർദ്ധിക്കുന്ന ഡ്രെയിൻ കറന്റ് id ആണ് നമുക്ക് ഔട്ട്പുട്ട് കറന്റുള്ളപ്പോഴെല്ലാം നമുക്ക് കറന്റ് എടുക്കുന്ന ഒരു ടെർമിനൽ ആവശ്യമാണ് നിങ്ങൾക്ക് കറന്റ് നിരീക്ഷിക്കണമെങ്കിൽ കറന്റ് ഒഴുകുന്ന മറ്റ് ടെർമിനൽ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു വോൾട്ടേജ് ഉണ്ടെന്ന് പറയട്ടെ ഈ നോഡ് വോൾട്ടേജ് നൽകുന്നു നിങ്ങൾക്ക് വോൾട്ടേജ് അളക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ നോഡ് എടുത്ത് മറ്റെന്തിലെങ്കിലും ബന്ധിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് മനസ്സിലാക്കാൻ കഴിയും കറന്റ് മനസിലാക്കാൻ നമ്മൾ എന്തെങ്കിലും സീരീസിൽ സ്ഥാപിക്കണം അതിനുള്ള സാധ്യമായ ഒരു മാർഗ്ഗം ഈ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് നിയന്ത്രിത സോഴ്സ് ഇതുപോലെയാണ് കൂടാതെ അത് ആ വഴിയിലൂടെ ഒഴുകുന്നു ഈ ടെർമിനലുകളിൽ ഒന്നിൽ നിന്ന് കറന്റ് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം അതേ വൈദ്യുതധാര ഇതിലൂടെ ഒഴുകുന്നു അതിനാൽ നമുക്ക് ഇവിടെ ഒഴുകുന്ന കറന്റ് ഉപയോഗിച്ച് വൈദ്യുതധാര അളക്കാൻ കഴിയും അതിനാൽ നമുക്ക് അത് ശ്രമിക്കാം നമുക്ക് ആവശ്യമുള്ള അളവ് എന്താണ് നമുക്ക് vin ioR 0 വേണം അതിനാൽ io ചില R ഉപയോഗിച്ച് ഗുണിക്കണം അങ്ങനെ അതിനെ വോൾട്ടേജുമായി താരതമ്യപ്പെടുത്താം ഇപ്പോൾ വ്യക്തമായും ഡ്രെയിൻ കറന്റ് ഔട്ട്പുട്ട് കറന്റാണ് അവിടെയാണ് നമുക്ക് MOS ട്രാൻസിസ്റ്ററിൽ കറന്റ് ഔട്ട്പുട്ട് ലഭിക്കുന്നത് ഈ io അത് ആ വഴിയിലൂടെ ഒഴുകുന്നുവെന്ന് നമുക്ക് പറയാം താഴേക്ക് അതിനാൽ ഒരു റെസിസ്റ്റർ R വഴി കടന്നുപോകുകയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് ioR ആയിരിക്കും ഞാൻ അതിനെ ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കുന്നുവെന്ന് പറയട്ടെ ഇപ്പോൾ MOS ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ് നോഡിലെ വോൾട്ടേജ് ioR ആണ് vgs എന്തായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അത് vin ioR ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ ഗേറ്റിനെ ഇൻപുട്ട് വോൾട്ടേജുമായി ബന്ധിപ്പിച്ചാൽ എനിക്ക് vgs vin ioR ആയി ലഭിക്കുമെന്ന് വളരെ വ്യക്തമാണ് ലോഡ് ഡ്രെയിനിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയും കാരണം ഇവിടെ അനുഭവപ്പെടുന്ന അതേ വൈദ്യുതധാര ഈ റെസിസ്റ്ററിലൂടെ കടന്നുപോകുന്നു നിയന്ത്രിത സോഴ്സിലൂടെയും ലോഡിലേക്കും ഒഴുകുന്നു ഇപ്പോൾ ഞാൻ ഒരു റെസിസ്റ്ററായി ലോഡിനെ പ്രതിനിധീകരിക്കും അതിനാൽ എനിക്ക് ഇപ്പോൾ ഉള്ളത് സോഴ്സ് ടെർമിനലും ഗ്രൌണ്ടും തമ്മിലുള്ള റെസിസ്റ്റൻസിനെ ബന്ധിപ്പിക്കുന്ന ഒരു ക്രമീകരണമാണ് അതിനർത്ഥം എത്ര ഡ്രെയിൻ കറന്റ് ഒഴുകിയാലും അത് ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുകയും ioR ന്റെ ഒരു സോഴ്സ് വോൾട്ടേജ് സൃഷ്ടിക്കുകയും ചെയ്യും ഞാൻ ഗേറ്റ് ഇൻപുട്ട് വോൾട്ടേജ് vin ലേക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vin ioR ആയിരിക്കും അതാണ് എനിക്ക് വേണ്ടത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും io വളരെ വലുതാണെങ്കിൽ ഈ vgs ചെറുതായിരിക്കുകയും കറന്റ് കുറയ്ക്കുകയും ചെയ്യുന്നു അതാണ് നമുക്ക് വേണ്ട നെഗറ്റീവ് ഫീഡ്ബാക്ക് നടപടി അതിനാൽ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിനായി നമ്മൾ ആഗ്രഹിക്കുന്ന ഈ സർക്യൂട്ട് അടിസ്ഥാനപരമായി ഇതാണ് ഗേറ്റിലേക്ക് ഇൻപുട്ട് പ്രയോഗിക്കുന്നു സോഴ്സും ഗ്രൌണ്ടും തമ്മിലുള്ള റെസിസ്റ്റൻസ് R ഡ്രെയിനും കറന്റും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ലോഡ് ഡ്രെയിനിലൂടെ ഒഴുകുന്നു ഇപ്പോൾ ആ രീതിയിൽ എനിക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു റെസിസ്റ്റൻസ് ഞാൻ അനുമാനിക്കും അതിനാൽ ഇതാണ് നമ്മുടെ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ്ന്റെ ഇൻക്രെമെന്റൽ സ്മാൾ സിഗ്നൽ ചിത്രം